PML ഫേസ് മാച്ചിംഗ് അതിനാൽ PML ന്റെ വികസനം നമ്മൾ തുടരുന്നു നമ്മൾ ഓർക്കേണ്ട ആശയം കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഗണിതപരമായി ഒരു അനിസോട്രോപിക് മാധ്യമം സൃഷ്ടിക്കുന്നതിനു തുല്യമാണ് അതിനാൽ അത് ആഗിരണം ചെയ്യുന്നു കൂടാതെ അതിന് പരിണാമ തരംഗങ്ങൾ ഉണ്ടായിരിക്കും പ്രധാന ആശയം നമ്മൾ ഇതിനകം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്നതും എന്നതുമായ ഓപ്പറേറ്ററുകൾ സാമാന്യവൽക്കരിച്ചു ഇപ്പോൾ പദം ഉണ്ട് ന് സമാനമായത്ആണ് അതിന്റെ ഫലമായി എനിക്ക് ഇവിടെ ഒരു പുതിയ പ്രകീർണനത്തിൻറെ ബന്ധം ലഭിച്ചു മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ കുറച്ചുകൂടി പുനർനിർവചിക്കപ്പെട്ടു ഞാൻ എന്ന് നൽകിയപ്പോഴേയ്ക്കും എനിക്ക് ശൂന്യത ലഭിച്ചു അതിനാൽ അതാണ് അവസ്ഥ അതിനാൽ ഇതുവരെ ഞങ്ങൾ സംസാരിച്ചത് ലളിതമായ ഒരു മാധ്യമം മാത്രമാണ് അതിൽ ന് ചില മൂല്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ യഥാർത്ഥ പ്രചോദനം എന്തായിരുന്നു തരംഗങ്ങൾ പ്രതിഫലിക്കാത്ത രീതിയിൽ നമ്മുടെ കണക്കുകൂട്ടൽ അതിർത്തിയിൽ ആഗിരണം ചെയ്യുന്ന ഒരു പാളി സ്ഥാപിക്കാൻ നമ്മൾ വിചാരിച്ചു അതിനായി നമ്മൾ രണ്ട് മാധ്യമങ്ങൾക്കിടയിൽ ഉള്ള അതിരുകൾ പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ അടുത്തതായി നോക്കുന്നത് അതാണ് അതായത് രണ്ട് മാധ്യമങ്ങൾ തമ്മിലുള്ള അതിർത്തി ശരിയല്ലേ അതിനാൽ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും എനിക്ക് ഇവിടെ ഒരു xy സമതലം ഉണ്ടെന്ന് കരുതുക z 0 ഒരു അതിരാണ് അതിനാൽ ഇത് ഇവിടെ മുകളിൽ പ്രദേശം 1 ആണ് ഇത് z 0 ആണ് തുടർന്ന് എനിക്ക് പ്രദേശം 2 ഉണ്ട് കൂടാതെ നമ്മൾ ഒരു ലളിതമായ കാര്യം ചെയ്യും മാധ്യമം 1 ൽ നിന്ന് മാധ്യമം 2 ലേക്ക് പതിക്കുന്ന ഒരു സമതല തരംഗം നമ്മൾ പരിഗണിക്കുന്നു ഉദാഹരണത്തിന് പ്രദേശം 1 നമ്മുടെ കണക്കുകൂട്ടൽ അതിർത്തിയാണ് പ്രദേശം 2 PML പാളി ആണ് അതിനാൽ ഇതാണ് അതിൻറെ സജ്ജീകരണം എനിക്ക് ഇതുപോലുള്ള ചില തരംഗങ്ങൾ ഇവിടെ പതിച്ച് അവ ഇവിടെ പ്രതിഫലിക്കുന്നു എന്റെ ലക്ഷ്യം ഈ പ്രതിഫലന ഗുണകം ഏറ്റവും മോശമായ സാഹചര്യത്തിൽ 0 ആയിരിക്കണം എന്നതാണ് അതാണ് ഞാൻ രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ സമതല തരംഗങ്ങളെ കൈകാര്യം ചെയ്യും അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നോക്കിയാൽ ഇത് ഹൈസ്കൂളിൽ നമ്മൾ കണ്ട തരത്തിലുള്ളതാണ് ഒരു സമതല അതിർത്തിയിൽ ഒരു തരംഗം പതിക്കുന്നു അപ്പോൾ ആണ് നമ്മൾ രണ്ട് വ്യത്യസ്ത ധ്രുവീകരണത്തിനുള്ള ഫ്രെനൽ പ്രതിഫലന ഗുണകങ്ങൾ കണ്ടെത്തിയത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകൾ സമതലത്തിൽ ആണോ അതോ സമതലത്തിന് ലംബമായിരിക്കുമോ എന്നതിനെ ആശ്രയിച്ച് അന്ന് നമ്മൾ അവയെ സമാന്തര ധ്രുവീകരണം ലംബ ധ്രുവീകരണം എന്നിങ്ങനെ വിളിച്ചിരുന്നു അതിനാൽ ഏതൊരു ഏകപക്ഷീയ സമതല തരംഗത്തെയും രണ്ട് ഓർത്തോഗണൽ ധ്രുവീകരണങ്ങളായി വിഭജിക്കാനാകുമെന്ന് എനിക്കറിയാം ആ ഓർത്തോഗണൽ ധ്രുവീകരണം ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നത് എന്നെ ആശ്രയിച്ചിരിക്കും ഒരു രീതി സമാന്തരമോ ലംബമോ ആയതാണ് പക്ഷേ അത് ഒരേയൊരു മാർഗ്ഗമല്ല മറ്റൊരു മാർഗ്ഗം TE അല്ലെങ്കിൽ TM ആകാം അവയും ഏതെങ്കിലും സമതല തരംഗമായി എഴുതാൻ കഴിയുന്ന രണ്ട് ഓർത്തോഗണൽ ധ്രുവീകരണങ്ങളാണ് എനിക്ക് ലംബമായും സമാന്തരമായും കൃത്യമായി ചെയ്യേണ്ടതില്ല അതിനാൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു ഉദാഹരണത്തിന് ഇതായിരുന്നു വിദ്യാർത്ഥി സർ ശരിഅപ്പോൾ ഇതാണ് ബോർഡിനു പുറത്തേക്കുവരുന്ന E അപ്പോൾ നമുക്ക് ഇതിനെ ലംബ ധ്രുവീകരണം എന്ന് വിളിക്കാം പക്ഷേ മറ്റ് സാഹചര്യങ്ങളിൽ E ഇങ്ങനെ ആയിരിക്കും ഇപ്പോൾ അതെ അവ യഥാർത്ഥത്തിൽ ഒന്നുതന്നെയാണ് അതിനാൽ അപ്പോൾ അവിടെ ഒരു പൂജ്യം അല്ലാത്ത ഉണ്ട് അത് അടിസ്ഥാനപരമായി TM TE എന്നിവയുടെ നിർവചനം പൂജ്യമല്ലാത്തതോ ആയതോ ആയ ആണ് അതിനാൽ ഇത് ലളിതമാക്കുന്നു ഇതാണ് രണ്ട് സാഹചര്യങ്ങൾ എന്നാൽ നമ്മൾ ഈ ലംബവും സമാന്തരവുമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കില്ല നമ്മൾ TE TM എന്നിവ ഉപയോഗിക്കും അതിനാൽ TM ൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു എന്നത് 0 ആയിരുന്നു അല്ലേ അതിനാൽ എനിക്ക് ഉണ്ടായിരുന്നു കൂടാതെ പിന്നെ TE യിൽ എനിക്ക് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത് ഇവ രണ്ടിൻറെയും രേഖീയസഞ്ചയം ആണ് അതിനാൽ നമ്മൾ TE യിൽ നിന്ന് ആരംഭിക്കുകയും എന്തെങ്കിലും കണ്ടെത്തുകയും ചെയ്യും പൊതുവായി പറഞ്ഞാൽ ™ യഥാർത്ഥത്തിൽ കൂടുതൽ എളുപ്പമാണ് അതിനാൽ ഈ ഒരു TE ധ്രുവീകരണത്തോടെ നമുക്ക് ആരംഭിക്കാം അതിനാൽ രണ്ട് മേഖലകളിലെ സമതല തരംഗങ്ങൾ പ്രദേശം 1 ൽ പതിക്കുന്ന ഒരു സമതല തരംഗത്തോടെ ഞാൻ ആരംഭിക്കും ഞാൻ ഏതുതരം തരംഗങ്ങളെ ആണ് പ്രതീക്ഷിക്കേണ്ടത് ഒരു പ്രതിഫലിക്കുന്ന തരംഗം കൈമാറ്റം ചെയ്യപ്പെട്ട തരംഗം അവയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന തരംഗങ്ങൾ അതിനാൽ ഇത് റഫ സമയം 0518 കാണുക അതിനാൽ ശരിയല്ലേ ഈ സാഹചര്യത്തിൽ x y സമതലത്തിലെ ഒരു വെക്റ്റർ ആകും കാരണം ആണ് അതിനാൽ അത് എന്തായിരുന്നാലും നമ്മൾ അത് വ്യക്തമാക്കേണ്ടതില്ല അതുപോലെ എനിക്ക് പ്രതിഫലിച്ച തരംഗം ഉണ്ടാകും അതിനാൽ പ്രതിഫലിച്ച E അതിനാൽ ഇത് എന്താകുമെന്ന് നോക്കാം അതിനാൽ പ്രതിഫലിക്കുന്ന തരംഗത്തിന്റെ രൂപം എനിക്ക് ലഘൂകരിക്കാനാകുമോ അതിനാൽ തരംഗ വെക്റ്റർ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രതിഫലിച്ച തരംഗത്തിനായുള്ള വൈദ്യുത മണ്ഡലം എനിക്ക് ആണെന്ന് എഴുതാൻ കഴിയും അവ ഒരേ തലത്തിൽ തന്നെ ആയിരിക്കണം വിദ്യാർത്ഥി അതെ പ്രതിഫലിപ്പിക്കുന്ന തരംഗ വെക്റ്റർ ആണെങ്കിൽ എന്നിവ തമ്മിൽ ഒരു ലളിതമായ ബന്ധം ഉണ്ടാകും അത് നമുക്ക് കണ്ടെത്താം അതിനാൽ ഇത് പ്രതിഫലിക്കുന്നു ഇത് പതിക്കുന്നു അതുപോലെ സമതലം ഒരുപോലെ ആയിരിക്കേണ്ട രീതിയിൽ തന്നെ എനിക്ക് വീണ്ടും ഒരു E കൈമാറ്റം ചെയ്യപ്പെട്ടു ഇതാണ് കൈമാറ്റം ചെയ്യപ്പെട്ട തരംഗം ഇപ്പോൾ ഞാൻ ഈ സമവാക്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സമവാക്യങ്ങൾ നൽകേണ്ട ഒരു കാര്യം എന്താണ് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും വ്യവസ്ഥാപിതമായി നമുക്ക് എന്ത് ഉപയോഗിക്കാം എന്താണ് തത്വം സ്പർശിക്കുന്ന അതിർത്തി വ്യവസ്ഥകൾഅത് പ്രസ്താവിക്കുന്നത് എന്താണ് കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ അത് സത്യമാകില്ല പക്ഷേ ഇവിടെ അത് സത്യമാണ് ഇല്ല അവിടെ ഉറപ്പായും വൈദ്യുതസ്രോതസ്സുകളൊന്നുമില്ല പക്ഷേ അതിർത്തി വ്യവസ്ഥകൾ സ്പർശന മേഖലകൾക്കുള്ളതാണെന്ന് ഓർമ്മിക്കുക അതെ തീർച്ചയായും അതിനാൽ അതിർത്തി വ്യവസ്ഥകൾ സ്പർശന മേഖലകൾക്കുള്ളതാണ് Z ഘടകങ്ങൾ ഇല്ലാത്തതിനാൽ എന്റെ ഫീൽഡുകൾ ഇതിനകം സ്പർശിക്കുന്നു ഒരു z ഘടകം ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ലംബ ഘടകം ആയിരിക്കും അതിനാൽ z ഘടകം ഇല്ലാത്തതിനാൽ എനിക്ക് എന്ന് എഴുതാൻ കഴിയും അതിനാൽ അടുത്തതായി എന്ത് സംഭവിക്കും അതിനാൽ അകത്ത് നമ്മൾ ഈ പദപ്രയോഗങ്ങൾ മാറ്റിസ്ഥാപിക്കും അതിനാൽ എനിക്ക് ലഭിക്കുന്നത് അതിനാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇവിടെ എല്ലാ ഭാഗത്തുനിന്നും ഇരുവശത്തുനിന്നും ഒഴിവാക്കാൻ കഴിയും മറ്റെന്താണ് കൂടുതൽ ലളിതമാക്കാൻ നിങ്ങൾക്ക് ചെയ്യാനാവുക നിങ്ങളുടെ ബിരുദ വൈദ്യുതകാന്തിക കോഴ്സിൽ നിങ്ങൾ ചെയ്ത ഒരു ചെറിയ പുനരവലോകനമാണിത് പ്രചാരണ സ്ഥിരതയെക്കുറിച്ച് ഇവിടെ നിന്ന് എനിക്ക് എന്ത് പറയാൻ കഴിയും വിദ്യാർത്ഥി എന്താണ് അവിടെ ഉണ്ടാകാം പക്ഷേ ഈ സമവാക്യം നോക്കി എനിക്ക് അത് പറയാൻ കഴിയുമോ ഉദാഹരണത്തിന് ഈ സമവാക്യം അതിനാൽ പൊതുവെ എന്നതിന് ഒരു x y z ഘടകം ഉണ്ടാകും ഈ അതിർത്തി z 0 ൽ സംഭവിക്കുന്നു അതിനാൽ അതിനാൽ z ഘടകങ്ങളെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല x y ഘടകങ്ങളെക്കുറിച്ച് എനിക്ക് എന്ത് പറയാൻ കഴിയും കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നുള്ള ഗണിതശാസ്ത്ര വാദം അല്ലെങ്കിൽ ന്യായവാദം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇവയെ ഫേസറുകൾ ആയി വ്യാഖ്യാനിക്കാം ഇവയാണ് ആ കറങ്ങുന്ന ഫേസറുകൾ അതിനാൽ ഇത് z 0 ൽ ശരിയായിരിക്കണം എന്നാൽ ഓരോ സമയത്തും ഞാൻ ഏതെങ്കിലും പോയിന്റ് x y എടുത്താലും അത് ശരിയായിരിക്കണം കാരണം ഉത്ഭവം തിരഞ്ഞെടുക്കുന്നത് ഏകപക്ഷീയമാണ് ഇവിടെ തരംഗം വന്നു പതിക്കുന്നത് ഒരു സമതല അതിർത്തിയിലാണ് തരംഗം ഒരു പോയിൻ്റിലല്ല അത് മുഴുവൻ അതിർത്തിയിലും പതിക്കുന്നു അതിനാൽ ഇത് എല്ലാ x y പോയിൻറ്കളിലും ശരിയായിരിക്കണം കൂടാതെ ന് പോലുള്ള പദങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് കാണാനാകും കൂടാതെ ഈ ഫേസറുകൾ ഏത് ഫേസിൽ കറങ്ങിക്കൊണ്ടിരുന്നാലും ഈ പദപ്രയോഗം എല്ലായ്പ്പോഴും ശരിയായിരിക്കണം അപ്പോൾ ഈ ഫേസറുകൾക്ക് ഒരേ അർത്ഥത്തിൽ ഒരേ വേഗതയിൽ കറങ്ങാനുള്ള ഒരേയൊരു സാധ്യത എന്താണ് അതിനാൽ ഇത് ദൃശ്യവൽക്കരിക്കുക ആദ്യത്തേത് ഒരു ഫേസറാണ് രണ്ടാമത്തേത് ഒരു ഫേസറാണ് മൂന്നാമത്തേതും ഒരു ഫേസറാണ് ഞാൻ x y എന്നിവയുടെ മൂല്യങ്ങൾ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും ഈ ഫേസറുകളുടെ ഫേസ് മാറും ഇപ്പോൾ ഞാൻ ഇടത് വശത്ത് 2 ഫേസറുകൾ ചേർത്ത് വലതുവശത്തുള്ള മറ്റൊരു ഫേസറുമായി തുല്യമാക്കുന്നു ഭ്രമണത്തിന്റെ എല്ലാ മൂല്യങ്ങൾക്കും ഈ ബന്ധം ശരിയായിരിക്കണം അത് എപ്പോൾ സാധ്യമാകും എല്ലാ ഫേസറുഅവകളും ഒരേ വേഗതയിൽ കറങ്ങുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവ ഫേസിലാകും ചിലപ്പോൾ അവ ഫേലാകില്ല അപ്പോൾ ഈ ബന്ധം ശരിയാവുകയില്ല അതിനാൽ ഫേസിനായി ചില അർത്ഥത്തിൽ വേഗത തുല്യമായിരിക്കുമ്പോൾ എനിക്ക് എന്ത് പറയാൻ കഴിയും എല്ലാ യും അവയും എല്ലാം സമാനമായിരിക്കും അതിനാൽ പ്രകാശ ശാസ്ത്രത്തിൽ ഫേസ് മാച്ചിംഗ് അവസ്ഥ എന്ന് വിളിക്കപ്പെടുന്നു ഇതാണ് നിങ്ങളുടെ സ്നെല്ലിന്റെSnell's നിയമങ്ങൾ കണ്ടെത്തുന്നതിനുള്ള കഠിനമായ മാർഗം അതിനാൽ ഫേസ് മാച്ചിംഗ് നെ ഒരു സാധാരണ അവബോധം ആണെന്നു പറയാം അതിനാൽ ഞാൻ ഇത് ഉറപ്പുവരുത്തുകയാണെങ്കിൽ ഈ സമവാക്യത്തിലേക്ക് ഏത് x y എന്നിവ വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല ഇത് ചെയ്തുകഴിഞ്ഞാൽ ഫേസറുകൾ ഒരേ വേഗതയിൽ കറങ്ങും എനിക്ക് എന്താണ് വേണ്ടത് ഇവിടെ നിന്നുള്ള നിഗമനം എന്തെന്നാൽ ഫേസറുകൾ തുല്യമായതിനാൽ അവ ഒഴിവാക്കപ്പെടും അതിനാൽ ഇത് TE ധ്രുവീകരണത്തിലാണ് അതിനാൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വ്യക്തമാണ് ഇനി അടുത്തത് അതിനാൽ R T എന്നീ രണ്ട് വേരിയബിളുകളിൽ എനിക്ക് ഒരു സമവാക്യം ലഭിച്ചു അടുത്തതായി ഞാൻ എന്തുചെയ്യും പക്ഷേ ഒരു കാര്യം ഇവിടെ അർത്ഥമാക്കുന്നത് ഈ ബന്ധങ്ങൾ ഇവിടെ ഒരുമിച്ച് എടുക്കുമ്പോൾ അടിസ്ഥാനപരമായി ഇത് നിങ്ങളുടെ സ്നെല്ലിന്റെ നിയമം നൽകുന്നു നിങ്ങൾ ഈ k വെക്റ്ററുകളെ കോണുകളുടെ അടിസ്ഥാനത്തിൽ എഴുതിക്കഴിഞ്ഞാൽ എന്ന് ലഭിക്കും അതെല്ലാം ഇവിടെ നിന്ന് വരുന്നു പക്ഷേ നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല അടുത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ലംബ ഘടകങ്ങൾ ഒരു ബുദ്ധിപരമായ ആശയമാണ് ബിരുദ കോഴ്സിൽ നമ്മൾ ചെയ്ത ഒരു സമതല അതിർത്തിയിൽ നിന്ന് നമ്മുടെ പ്രതിഫലന ഗുണകങ്ങൾ ലഭിച്ചപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് സാധാരണ അതിർത്തി വ്യവസ്ഥകളല്ല E H എന്നിവയ്ക്കായി നമ്മൾ സ്പർശിക്കുന്ന അതിർത്തി വ്യവസ്ഥകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഞാൻ E ക്ക് സ്പർശിക്കുന്ന അതിർത്തി വ്യവസ്ഥകൾ ഉപയോഗിക്കുന്നു അടുത്തതായി അവശേഷിക്കുന്നത് എന്താണ് H ടാൻജഷ്യൽ അതിനാൽ അടുത്തത് H ടാൻജഷ്യൽ ആയി സംരക്ഷിക്കപ്പെടും ഇത് യഥാർത്ഥത്തിൽ TE TM ധ്രുവീകരണത്തിനായി R നിങ്ങൾ എങ്ങനെയാണ് നേടിയത് അതുപോലെയാണ് ഇത് രണ്ടാമത്തെ സമവാക്യം ഇവിടെ നിന്ന് വന്നാൽ നിങ്ങൾ അത് നടപ്പിലാക്കുക വിദ്യാർത്ഥി സ്പർശന മണ്ഡലം അതെ കാരണം പ്രതലത്തെ സ്പർശിക്കുന്നതാണ് z0 വിദ്യാർത്ഥി പ്രതലത്തിൽ നമുക്കുള്ളത് ശരിയാണ് എങ്ങനെയാണ് അത് രൂപവത്കരിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ പാളികൾ രൂപകൽപ്പന ചെയ്യുന്നതിനാൽ അത് പ്ലാനാർ ആണെന്ന് ഞാൻ ഉറപ്പുവരുത്താൻ പോകുന്നു പക്ഷേ അത് വിചിത്രമാണെങ്കിൽ അത് ഏകദേശം ഒരു പ്രാദേശിക അവസ്ഥ മാത്രമായിരിക്കും വിദ്യാർത്ഥിസർ വിദ്യാർത്ഥി എന്നതിൻറെ ദിശ എന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അതെ അതിൻറെ ദിശ വിദ്യാർത്ഥി ഘടകങ്ങളെല്ലാം ഒന്നാകുമ്പോൾ അതാണ് നമുക്ക് വേണ്ടത് വിദ്യാർത്ഥി നമ്മുടെ ഫലങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും അതിനാൽ വധിച്ചതും പ്രതിഫലിച്ചതുമായ തരംഗ വെക്റ്ററുകളുടെ ദിശകൾ വ്യത്യസ്തമാണ് ആ വ്യത്യാസം പ്രാഥമികമായി വരുന്നത് x y അല്ലെങ്കിൽ z എന്നീ അളവുകളിൽ ആണ് z അല്ലേ പതിക്കുന്നത് z ദിശയിലും പ്രതിഫലിക്കുന്നത് z ദിശയിലും ആണ് ശരിയാണ് z ആണ് വ്യത്യാസം വരുത്തുന്നത് പക്ഷേ ഈ ഫേസ് മാച്ചിംഗ് അവസ്ഥയിൽ നിന്ന് z പദം അപ്രത്യക്ഷമായി വിദ്യാർത്ഥി അതിരിൽ മാത്രമാണോ അതിരിൽ മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് അതിർത്തി വ്യവസ്ഥ എന്തായാലും അതിരുകളിൽ മാത്രമായിരിക്കും തരംഗ വെക്റ്ററുകളുടെ z ഘടകം വളരെ നിർണായകമായിരിക്കും നമ്മൾ പിന്നീട് അതിലേക്ക് വരുന്നതായിരിക്കും പക്ഷേ ഇത് ഒരു നല്ല പോയിന്റാണ് ഇവിടെ ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരു തരംഗ വെക്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ z ഘടകത്തിന്റെ ചിഹ്നം മറിച്ചാൽ അത് നേരെ മുകളിലേക്ക് പോകും